ഒരു ac വോൾട്ടേജിലേക്ക് dc വോൾട്ടേജ് ചേർക്കാൻ കഴിയുന്ന സർക്യൂട്ടാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നത് അതിനാൽ ട്രാൻസിസ്റ്ററിലേക്ക് നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെയും സിഗ്നലിന്റെയും കോമ്പിനേഷൻ കൊടുക്കാൻ കഴിയും അതിനാൽ ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിലോ ഗേറ്റ് സോഴ്സിനിടയിലോ നമുക്ക് 3 വോൾട്ട് പ്ലസ് Vs ആവശ്യമാണ് നമ്മൾ അത് എങ്ങനെ ചെയ്യും 3 വോൾട്ട് പ്ലസ് V s ലഭിക്കാൻ സിഗ്നൽ സോഴ്സ് Vs മായി യോജിക്കുന്ന സോഴ്സ് ആവശ്യമാണ് ഇപ്പോൾ സോഴ്സ് റെസിസ്റ്റൻസ് Rs ഞാൻ അവഗണിക്കും പിന്നീട് ഞാൻ ഇത് കൊടുത്തിട്ട് അതിന്റെ ഫലം എന്താണെന്ന് കാണും അതിനാൽ ഇത് ഒരു കപ്പാസിറ്റർ C വഴി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് കൂടാതെ 3 വോൾട്ട് സോഴ്സ് റെസിസ്റ്റർ R വഴി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ Vs ഒരു നിശ്ചിത ഫ്രീക്വെൻസി ഒമേഗ നോട്ട് ആണ് ഇതിൽ ഒന്നിലധികം ഫ്രീക്വെൻസികളുണ്ടെങ്കിൽ ഇതാണ് സാധ്യമായ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വെൻസി കൂടാതെ ഇതിന്റെ കപ്പാസിറ്റർ സൈസ്സ് ഒമേഗ നോട്ട് C എന്നത് 1 R നേക്കാൾ വലുതാണ് ഇത് കാണിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് ഇതാണ് ഇത് അർത്ഥമാക്കുന്നത് അതിനാൽ ഒമേഗ നോട്ടിൽ ഇത് ഏതാണ്ട് ഷോട്ട് ആണ് അതിനാൽ എല്ലാ Vs കളും ഇവിടെ വരുന്നു dc ഒരു ഓപ്പൺ ആണ് അതിനാൽ dc അവിടെ പ്രത്യക്ഷപ്പെടുന്നു ഇതാണ് ഐഡിയ നമ്മുടെ കാര്യത്തിൽ ഈ 3 വോൾട്ടുകൾ ഉയർന്ന വോൾട്ടേജ് സോഴ്സ് ആയ 23 വോൾട്ടുകളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നു ഈ R1 R2 നോക്കുകയാണെങ്കിൽ ഇവിടെ R1 R2 എന്ന അനുപാതം തെവെനിൻ വോൾട്ടേജ് 3 വോൾട്ട് ആണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് R 1 || R 2 എന്ന മൂല്യമുള്ള തെവെനിൻ റെസിസ്റ്റൻസിനോട് സീരീസിലുള്ള 3 വോൾട്ട് സോഴ്സിന് തുല്യമാണിതെന്നും നമുക്കറിയാം അതിനാൽ ഈ മുഴുവൻ കാര്യവും ഈ മൂന്ന് വോൾട്ട് പ്ലസ് സീരീസ് റെസിസ്റ്റൻസ് എന്ന ഇതേ കാര്യമാണ് നമുക്കിവിടെയുള്ളത് ഈ മുഴുവൻ കാര്യങ്ങളും 23 വോൾട്ടും റെസിസ്റ്റീവ് ഡിവൈഡറും ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം അതിനാൽ ഞാൻ ഇപ്പോൾ എന്തുചെയ്യും സീരീസ് റെസിസ്റ്റൻസിലുള്ള മൂന്ന് വോൾട്ടുകൾക്ക് പകരം ഞാൻ ഇത് നീക്കംചെയ്യും എനിക്ക് 23 വോൾട്ടും റെസിസ്റ്റീവ് ഡിവൈഡർ R1 R2 ഉം ഉണ്ടാകും ഇത് എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന സർക്യൂട്ടിന് തുല്യമാണ് നിങ്ങൾക്ക് മനസിലായില്ലെങ്കിൽ ദയവായി വീണ്ടും ഈ കാര്യങ്ങളിലൂടെ കടന്നുപോവുക 3 വോൾട്ട് റെസിസ്റ്റൻസുമായി സീരീസിൽ ഉള്ളതിന് തുല്യമാണിതെന്ന് സ്വയം ബോധ്യപ്പെടുത്തുക അതിനാൽ ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിൽ ഞാൻ എന്തുചെയ്യണം എനിക്ക് 23 വോൾട്ടുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഡിവൈഡർ ഉണ്ടായിരിക്കും സിഗ്നൽ സോഴ്സ് ഇതുപോലെ കപ്പിൾ ചെയ്തിരിക്കും മുമ്പ് ഒമേഗ നോട്ട് C എന്നത് 1 R നെക്കാൾ വളരെ വലുതായിരിക്കണം കൂടാതെ R എന്നത് R1 R2 നോട് സമാന്തരമായതാണ് അതിനാൽ ഒമേഗ നോട്ട് C എന്നത് 1 R1 || R2 നെക്കാൾ വലുതായിരിക്കണം ഇപ്പോൾ നമ്മൾ ലോഡ് എന്തുചെയ്യും ലോഡും ഗ്രൌണ്ട് റഫറൻസ് ചെയ്യണം അതായത് ലോഡ് ഇതുപോലെയാണ് സിഗ്നൽ ഫ്രീക്വെൻസിക്കായി ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിൻ ലോഡുമായി ബന്ധിപ്പിച്ചിരിക്കണമെന്ന് നമുക്കറിയാം അതിനാൽ ഇത് എങ്ങനെ ചെയ്യും ഈ ക്രമീകരണം നമ്മൾ ഇവിടെ ചെയ്തതിനോട് വളരെ സാമ്യമുള്ളതാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് സിഗ്നൽ 3 volts സിനുസോയ്ഡൽ സിഗ്നൽ Vs നോട് ചേർക്കണം ഈ സാഹചര്യത്തിൽ ഡ്രെയിനിൽ നമുക്ക് പൂജ്യമല്ലാത്ത ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ഉണ്ടാകും അത് VDS ഓപ്പറേറ്റിംഗ് പോയിന്റ് മൂന്ന് വോൾട്ടുകളായി തിരഞ്ഞെടുക്കുന്നു കൂടാതെ നമുക്ക് അത് പ്ലസ് സിഗ്നൽ ഉണ്ടാകും കൂടാതെ സിഗ്നൽ മാത്രമേ RL ലേക്ക് പ്രയോഗിക്കാൻ കഴിയൂ ഇത് ഗ്രൌണ്ട് റെഫെറെൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡ്രെയിൻ സോഴ്സിനുടനീളം നമുക്ക് V D S 0 ഉണ്ടാകും ആംപ്ലിഫയറിന്റെ യഥാർത്ഥ കോൺഫിഗറേഷനിലേക്ക് നമുക്ക് മടങ്ങാം ഇതാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഇവിടെ നമുക്ക് 3 volts Vs ഉണ്ടായിരുന്നു നമ്മൾ ഇത് ഇതുപോലെ ബയാസ് ചെയ്തിരുന്നു ഇവിടെ ഇത് 23 വോൾട്ട് ആണ് ഇത് 100 കിലോ ഓം ആണ് ഇതിന് കുറുകേ നമുക്ക് 3 വോൾട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റുണ്ട് കൂടാതെ ഇൻക്രിമെന്റൽ സിഗ്നൽ ഇൻക്രിമെന്റൽ സർക്യൂട്ടിൽ നിന്ന് ലഭിക്കുന്ന g m R L V s ആണ് അതിനാൽ ഇതാണ് ഇൻക്രിമെന്റൽ പാർട്ട് നമുക്ക് ഇതുപോലുള്ള RL ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം മറ്റെല്ലാം അതേപടി തുടരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു 3 volts Vs ഇവിടെയും ഡ്രെയിനിലും സോഴ്സിനും കുറുകെയായി നമുക്ക് 3 volts g m R L V s ഉണ്ടാകും നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടുവെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ ഇതിന്റെ ഇൻക്രിമെന്റൽ അനാലിസിസ് വീണ്ടും നടത്തുക അതിനാൽ ഇതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇതിന് മൂന്ന് വോൾട്ട് ആകേണ്ടതില്ല ഇത് VGS Vt യേക്കാൾ വലുതായിരിക്കണം നമ്മുടെ ഉദാഹരണത്തിൽ ഇത് 3 വോൾട്ടുകളായി നമ്മൾ തിരഞ്ഞെടുക്കുന്നു RL ഇതുപോലെ ബന്ധിപ്പിക്കാൻ കഴിയില്ല ഞാൻ ഇവിടെ കണക്ഷൻ കാണിക്കില്ല എങ്ങനെയെങ്കിലും ട്രാൻസിസ്റ്റർ ശരിയായി ബയാസ് ചെയ്തെന്ന് ഞാൻ അനുമാനിക്കും അതിനാൽ എന്റെ RL ഇവിടെ ഉണ്ടായിരിക്കണം RL നു ഉടനീളം g m RL V s ആയ ആംപ്ലിഫൈഡ് സിഗ്നൽ എനിക്ക് ആവശ്യമാണ് വീണ്ടും ഇവിടെ ഈ ഭാഗം dc അല്ലെങ്കിൽ സീറോ ഫ്രീക്വൻസി ആണെന്നും ഇവിടെ ഈ ഭാഗം ഒമേഗ നോട്ടിന്റെ ഫ്രീക്വെൻസിയാണെന്നുമുള്ള കാര്യം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു അതിനാൽ ഇതിന്റെ അർത്ഥമെന്താണ് ഈ നോഡിനെ ഈ നോഡിലേക്ക് ഒമേഗ നോട്ടിനായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ ഇത് dc യുമായി ബന്ധിപ്പിക്കരുത് അതിനാൽ ഉത്തരം വളരെ വ്യക്തമാണ് എനിക്ക് ഇവിടെ കണക്റ്റുചെയ്യാൻ കഴിയുന്ന ഒരു ഘടകം അത് ഒമേഗ നോട്ടിന് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പെരുമാറുന്നു പക്ഷേ dc യക്ക് ഒരു ഓപ്പൺ സർക്യൂട്ട് ആവും അത് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അത് ബന്ധിപ്പിച്ചിട്ടില്ല കപ്പാസിറ്റർ dc യിൽ ഒരു ഓപ്പൺ സർക്യൂട്ടാണെന്ന് നിങ്ങൾക്ക് കാണാം അതിനാൽ ഞാൻ ഇവിടെ കപ്പാസിറ്റർ ബന്ധിപ്പിച്ചാൽ ഇത് ഇല്ലാതാകും ഇതിനെ C2 എന്നു വിളിക്കാം കൂടാതെ കപ്പാസിറ്ററിന്റെ ഇംപിഡെൻസ് ഫ്രീക്വെൻസിക്കനുസരിച്ച് കുറയുന്നു അതിനാൽ ഒമേഗ നോട്ട് ഫ്രീക്വെൻസിയിൽ C2 ആവശ്യത്തിന് വലുതായി നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് ലോഡ് റെസിസ്റ്ററിനേക്കാൾ വളരെ ചെറുതായിരിക്കും ഇത് മിക്കവാറും ഷോർട്ട് സർക്യൂട്ട് പോലെയാകും അതിനാൽ 1 ഒമേഗ നോട്ട് C2 എന്നത് RL നേക്കാൾ വളരെ കുറവാണെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ അങ്ങനെയാണ് നമ്മൾ C2 തിരഞ്ഞെടുത്തത് അതിനാൽ ട്രാൻസിസ്റ്ററിനെ ബന്ധിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗം ഇതാണ് കൂടാതെ ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിൻ സോഴ്സിനു കുറുകേയുള്ള എന്തിനേയും ലോഡ് റെസിസ്റ്ററുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇത് ഗ്രൌണ്ട് ചെയ്തിട്ടുണ്ട് അതിനാൽ ഞാൻ ചെയ്യേണ്ടത് ഈ C2 മറ്റ് കപ്പാസിറ്ററുകളിൽ നിന്ന് ഈ കപ്പാസിറ്ററിനെ വേർതിരിക്കുകയാണ് ഞാൻ ഇതിനെ C1 എന്ന് വിളിക്കുന്നു ഇപ്പോൾ എനിക്ക് ഇതിലൂടെ കുറച്ച് വൈദ്യുതി പ്രവാഹം ആവശ്യമാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് കറന്റ് ID ആയിരിക്കണം ഇതിലൂടെ ഒഴുകുന്നത് ഈ VDS ക്യുസെന്റ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് VGS VT യേക്കാൾ കൂടുതലായിരിക്കണം അതിനാൽ എങ്ങനെയാണ് ഇത് ഉറപ്പാക്കേണ്ടത് മുമ്പ് ഞാൻ ചെയ്ത സമാനമായ ക്രമീകരണങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതിനുമുമ്പ് എനിക്ക് കുറച്ച് dc വോൾട്ടേജ് ആവശ്യമാണ് ഈ 23 വോൾട്ട് തന്നെ എടുക്കാം ഞാനിത് ഇവിടെ വീണ്ടും കണക്റ്റുചെയ്തു ഞാൻ ഇതിനെ ഒരു റെസിസ്റ്റർ RD വഴിയും ബന്ധിപ്പിക്കും ഇത് യഥാർത്ഥ സർക്യൂട്ടിലല്ലെന്ന് ഓർക്കുക ട്രാൻസിസ്റ്ററിലൂടെ ഈ കറൻറിനു ചില പാതകളുണ്ടാക്കാൻ ഞാൻ ഇത് ഉപയോഗിച്ചു നമ്മുടെ ഉദാഹരണത്തിലെ ക്യുസെന്റ് കറൻറ് ആയ ID 200 മൈക്രോ ആമ്പിയറുകൾക്ക് ഈ കപ്പാസിറ്ററിലൂടെ ഒഴുകാൻ കഴിയില്ല ഇത് dc യെ തടയുന്നു അതിനാൽ ഈ വൈദ്യുതധാരയ്ക്ക് ഒരു പാത ഉണ്ടായിരിക്കണം അതാണ് ഈ റെസിസ്റ്റൻസ് RD അതിനാൽ ഇതാണ് എന്റെ അവസാന സർക്യൂട്ട് നമ്മുടെ ഐഡിയൽ ആംപ്ലിഫയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ചില അധിക ഘടകങ്ങൾ ഉണ്ട് അതായത് നമുക്ക് ഈ റെസിസ്റ്ററുകൾ R1 R2 ഉണ്ട് നമുക്ക് ഈ RD ഉണ്ട് അതിന്റെ ഫലം എന്താണെന്ന് നോക്കാം അതിനാൽ ഈ സർക്യൂട്ട് മുഴുവൻ ഞാൻ വീണ്ടും വരയ്ക്കാം സിഗ്നൽ സോഴ്സുമായി സീരീസിലുള്ള റെസിസ്റ്റൻസും ഞാൻ ഉൾപ്പെടുത്തും ഇത് Vs ആണ് എനിക്ക് ഒരു കപ്പാസിറ്റർ C1 ഉണ്ട് R1 R2 ഉണ്ട് എനിക്ക് ഇവിടെ ഒരു MOS ട്രാൻസിസ്റ്റർ ഉണ്ട് കൂടാതെ ഈ റെസിസ്റ്റൻസ് RD ഉണ്ട് ഇത് ഡ്രെയിനിനെ ബയാസ് ചെയ്യിക്കാൻ ആവശ്യമാണ് ലോഡ് മറ്റൊരു കപ്പാസിറ്ററായ C2 മായി RL മായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാണ് എന്റെ പൂർണ്ണമായ ആംപ്ലിഫയർ ഞാൻ ഇത് പിന്നീട് വിശദീകരിക്കാം ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള ഏറ്റവും അടിസ്ഥാന ആംപ്ലിഫയർ ഇത് ഒരു MOS കോമൺ സോഴ്സ് ആംപ്ലിഫയർ എന്നറിയപ്പെടുന്നു നമ്മൾ ഇവിടെ എത്താൻ ധാരാളം സമയം ചെലവഴിച്ചു നിങ്ങൾ സർക്യൂട്ട് മാത്രം കാണുന്നു പക്ഷേ ഈ ഘടകങ്ങൾ ഓരോന്നും എന്തിനാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാലാണ് ഈ മുഴുവൻ കാര്യങ്ങളും ഞാൻ സമയമെടുത്ത് ഡിറൈവ് ചെയ്തത് അതിനാൽ ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആരംഭിച്ച് ഈ സർക്യൂട്ടുകൾ ആദ്യമായി കാണുന്നതുപോലെതന്നെ വിശകലനം ചെയ്യാം കൂടാതെ ഇവിടെ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് ഒന്നാമതായി ഇവിടെ ഈ മുഴുവൻ സർക്യൂട്ടും ഉണ്ട് അത് dcക്ക് ഒരേ തരത്തിൽ പ്രവർത്തിക്കുന്നു കാരണം നമുക്ക് dc യിൽ ഓപ്പൺ സർക്യൂട്ട് ആയി പ്രവർത്തിക്കുന്ന ഈ കപ്പാസിറ്ററുകൾ ഉണ്ട് dc യെ സംബന്ധിച്ചിടത്തോളം ഇതാണ് മുഴുവൻ ചിത്രം ഈ ഉപകരണത്തിന്റെ നോൺ ലീനിയർ സ്വഭാവം പരിഗണിക്കേണ്ടതുണ്ട് ഈ MOS ട്രാൻസിസ്റ്ററിനെ M1 എന്ന് വിളിക്കാം ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റിലൂടെയും മുകളിലൂടെയുമുള്ള ഇൻക്രിമെന്റൽ ചിത്രം നമുക്കുണ്ട് നമ്മൾ കുറച്ച് സിഗ്നൽ പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും നമ്മുടെ കാര്യത്തിൽ ഈ ഇൻക്രിമെന്റൽ സിഗ്നൽ Vs കുറഞ്ഞത് ഒമേഗ നോട്ട് ഫ്രീക്വെൻസിയുള്ള ഒരു സിനുസോയ്ഡൽ ac സിഗ്നലാണെന്നും ഈ കപ്പാസിറ്ററുകൾ ac ക്ക് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നുവെന്നും അനുമാനിക്കാം അതിനാൽ നമുക്ക് മറ്റൊരു ഇക്യുവാലന്റ് സർക്യൂട്ട് ഉണ്ടാക്കാം നമ്മുടെ ആംപ്ലിഫയറിൽ എന്താണുള്ളത് ഇതെല്ലാം ഗേറ്റിനെ ബയാസ് ചെയ്യിക്കുന്നതിനാണ് അതായത് ശരിക്കും VGS എന്ന ക്വിസന്റ് ഉണ്ടാക്കുന്നതിനുവേണ്ടി ഈ RD യും 23 വോൾട്ടും ഒരു VDS എന്ന ക്വിസന്റ് ഉണ്ടാക്കുന്നതിനായി ഡ്രെയിനിനെ ബയാസ് ചെയ്യിക്കുന്നതിനാണ് കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റ പ്രോട്ടോടൈപ്പിൽ ഈ R d യൊ R1 R2 ഓ ഇല്ല നമുക്ക് ആവശ്യമുള്ള ശരിയായ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഉണ്ടാക്കുന്നതിനായി ഈ ഘടകങ്ങൾ വേണം അതിനാൽ ഇവ സർക്യൂട്ടിൽ ചില സ്വാധീനം ചെലുത്തുന്നതായി നമുക്ക് കാണാം നമുക്ക് നമ്മുടെ സിഗ്നൽ സോഴ്സുണ്ട് നമുക്ക് ലോഡുണ്ട് ഇത് തീർച്ചയായും ആംപ്ലിഫയറിന്റെ ഹൃദയമാണ് ഇതാണ് ആംപ്ലിഫയർ ഉപകരണം അവസാനമായി നമുക്ക് ഈ കപ്പാസിറ്ററുകൾ C1 C2 എന്നിവയുണ്ട് ഇപ്പോൾ dc സിഗ്നലിനെ ചേർക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ MOS ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിൻ സോഴ്സിൽ നിന്നും ലോഡിലേക്ക് വോൾട്ടേജ് കപ്പിൾ ചെയ്യേണ്ടതുണ്ട് ഇവയെ ac കപ്ലിങ് കപ്പാസിറ്ററുകളെന്ന് വിളിക്കുന്നു അതിനാൽ ഇവ ac dc എന്നിവയ്ക്ക് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു അതിനാൽ അവ ac സിഗ്നലിനെ ഈ വഴിയിലൂടെ അനുവദിക്കുന്നു പക്ഷേ അവ dc ക്ക് ഓപ്പൺ സർക്യൂട്ടാണ് അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് സപ്ലൈ വോൾട്ടേജ് ഉണ്ടെന്ന് കരുതുക മുഴുവൻ കാര്യത്തിനും നമുക്ക് സിംഗിൾ സപ്ലൈ വോൾട്ടേജ് ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതിനാൽ ഒരൊറ്റ ബാറ്ററി ഉപയോഗിക്കുന്നതിനുള്ള നമ്മുടെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിച്ചു ഇത് സാധാരണയായി VDD എന്ന ചിഹ്നമുപയോഗിച്ച് സൂചിപ്പിക്കുന്നു അതിനർഥം ഇത് തീർച്ചയായും ഡ്രെയിൻ സൈഡ് ബയസിനായി ഉണ്ട് അതേ സപ്ലൈ ഉപയോഗിച്ച് നമ്മൾ ഗേറ്റിനെ ബയാസ് ചെയ്യിക്കുന്നു പക്ഷേ സാധാരണയായി ഈ സപ്ലൈയെ VDD എന്ന് വിളിക്കുന്നു അതിനാൽ അടുത്ത പാഠത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ സർക്യൂട്ട് എടുത്ത് ശരിയായി വിശകലനം ചെയ്യുകയാണ് അത് നമ്മുടെ യഥാർത്ഥ ഡിസൈനുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് എത്രത്തോളം വ്യതിചലിക്കുന്നുവെന്ന് കാണാം